ഒരു MOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സിന്റെ സ്മാൾ സിഗ്നൽ മോഡൽ ഇൻക്രിമെന്റൽ ചിത്രം നമ്മൾ ഡിറൈവ് ചെയ്തു ഇത് ഇതുപോലെ കാണപ്പെടുന്നു vi Rs എന്നിവയുടെ സീരീസ് സംയോജനത്താൽ പ്രതിനിധീകരിക്കുന്ന ഇൻപുട്ട് സോഴ്സ് MOS ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റിൽ പ്രയോഗിക്കുന്നു MOS ട്രാൻസിസ്റ്ററിന്റെ സോഴ്സിൽ നിന്ന് ഒരു റെസിസ്റ്റർ R1 ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് നമ്മൾ റിയലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന V C C S ന്റെ ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറന്റും തമ്മിലുള്ള അനുപാതത്തെ അർത്ഥമാക്കുന്ന ട്രാൻസ് കണ്ടക്ടൻസിനെ നിർവചിക്കുന്നു ട്രാൻസ് കണ്ടക്ടൻസ് R1 മാത്രം നിർണ്ണയിക്കാൻ gmR1 1 ആയിരിക്കും കൂടാതെ ലോഡ് ഡ്രെയിനും ഗ്രൌണ്ടുമായി തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഔട്ട്പുട്ട് കറന്റ് ലോഡിലൂടെ പോകുന്നു തീർച്ചയായും MOS ട്രാൻസിസ്റ്ററിന് ഒരു ഔട്ട്പുട്ട് കണ്ടക്ടൻസ് gds ഉണ്ടായിരിക്കാം ഇപ്പോൾ ഇതാണ് ഫംഗ്ഷണൽ ഇൻക്രിമെന്റൽ ചിത്രം അനുയോജ്യമായ ഒരു ബയസ് രീതി ഉപയോഗിച്ച് നമ്മൾ ഇത് സംയോജിപ്പിക്കണം ഡ്രെയിൻ കറന്റും ആവശ്യമുള്ള കറന്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ എവിടെയാണ് കാണുന്നത് എന്നതിനെ ആശ്രയിച്ച് ഒരു നിശ്ചിത കറന്റിൽ MOS ട്രാൻസിസ്റ്ററിനെ ബയസ് കാണുന്നതിന് നാല് ബയാസിംഗ് രീതികൾ ലഭ്യമാണ് സോഴ്സ് ഫോള്ളോവെറിന്റെ കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഒപാംപ് ഉൾപ്പെടുന്ന ബയസ് സർക്യൂട്ടുകൾ ഇതുപോലുള്ള ഒരു ലളിതമായ സർക്യൂട്ടിനായി വിശദീകരിക്കുകയും സങ്കീർണ്ണമാക്കുകയും ചെയ്യുന്നു അതിനാൽ മറ്റ് രണ്ട് സർക്യൂട്ടുകളും നമ്മൾ പരിഗണിക്കുന്നു അവയിലൊന്ന് ഡ്രെയിൻ ഫീഡ്ബാക്ക് ആണ് മറ്റൊന്ന് സോഴ്സ് ഫീഡ്ബാക്ക് ആയതിനാൽ ഇവയിൽ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സൌകര്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സോഴ്സ് ഫോളോവറിന്റെ കാര്യത്തിലെന്നപോലെ ഇത് കൂടുതൽ സൌകര്യപ്രദമായി തോന്നുന്നു കാരണം MOS ട്രാൻസിസ്റ്ററിന്റെ സോഴ്സ് ടെർമിനൽ സിഗ്നൽ ചിത്രത്തിൽ ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിട്ടില്ല അതേസമയം ഇവിടെ ഇത് ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതേസമയം ഇൻക്രെമെന്റൽ ചിത്രത്തിലെ സോഴ്സ് ഫീഡ്ബാക്കിന്റെ കാര്യത്തിൽ ഈ io ഉപേക്ഷിക്കുന്നുവെങ്കിൽ അത് ഒരു ഓപ്പൺ സർക്യൂട്ടായി മാറുകയും സോഴ്സ് ഫ്ലോട്ടിങ്ങായിരിക്കുകയും ചെയ്യുന്നു അതിനാൽ നമുക്ക് ആവശ്യമുള്ളിടത്ത് ഇത് ബന്ധിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അതിനാൽ ഇതാണ് കൂടുതൽ സൌകര്യപ്രദവും അതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നതും ഇപ്പോൾ ഇവ എങ്ങനെ സംയോജിപ്പിക്കും ഞാൻ ബയാസ് സർക്യൂട്ട് ഇടട്ടെ സോഴ്സ് ടെർമിനലിൽ നിന്ന് ഗ്രൌണ്ടിലേക്ക് നമുക്ക് ഒരു കറന്റ് സോഴ്സ്മുണ്ട് ബയസ് സംബന്ധിച്ചിടത്തോളം ഡ്രെയിൻ സപ്ലൈ വോൾട്ടേജ് - VDD മായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഗേറ്റ് ഒരു നിശ്ചിത വോൾട്ടേജ് VG0 ബയസ് ആയിരിക്കണം തീർച്ചയായും നമ്മൾ മറ്റൊരു dc സോഴ്സ് ഉപയോഗിക്കുന്നില്ല VDD യിൽ നിന്നുള്ള വോൾട്ടേജ് ഡിവൈഡർ നമ്മൾ ഉപയോഗിക്കുന്നു അതിനാൽ ഇത് പൂർണ്ണമായ ബയസ് ചിത്രമാണ് ഇത് സാച്ചുറേഷൻ മേഖലയിലെ ട്രാൻസിസ്റ്ററിനെ ബയസ് ആയിരിക്കണം കാരണം ഡ്രെയിൻ വോൾട്ടേജ് ഗേറ്റ് വോൾട്ടേജിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ നമ്മളുടെ വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സിൽ നമ്മൾ ഗേറ്റിലേക്ക് ഇൻപുട്ട് പ്രയോഗിക്കുന്നു ഇത് ഇപ്പോൾ വളരെ പരിചിതമായ ഒരു പദ്ധതിയാണ് പതിവുപോലെ ഇൻപുട്ട് സിഗ്നൽ ആവൃത്തി ഒരു നിശ്ചിത പോസിറ്റീവ് 𝜔min നേക്കാൾ വലുതാണെന്നും പൂജ്യത്തേക്കാൾ വലുതാണെന്നും ഞാൻ അനുമാനിക്കുന്നു ഇൻപുട്ട് സിഗ്നലിനായി ചില മിനിമം ഫ്രീക്വൻസി ഉണ്ട് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾക്ക് dc ഇൻപുട്ടുകൾ ഇല്ല അത്തരം സന്ദർഭങ്ങളിൽ സിഗ്നൽ ചേർക്കാൻ നമ്മൾ എന്തുചെയ്യുന്നു ഈ കപ്പാസിറ്റർ C1 വഴി നമ്മൾ എസി കപ്ലിംഗ് ഉപയോഗിക്കുന്നു ഇപ്പോൾ സിഗ്നൽ ആവൃത്തികൾക്കായി സോഴ്സും ഗ്രൌണ്ടും തമ്മിൽ ഈ റെസിസ്റ്റൻസ് R1 ബന്ധിപ്പിക്കണം സോഴ്സ് ടെർമിനലിലേക്ക് എസി കപ്ലിങ് ചെയ്യുന്നതാണ് അത് ചെയ്യുന്നതിനുള്ള എളുപ്പ മാർഗം ഇൻക്രെമെന്റൽ ചിത്രത്തിൽ Io ഒരു ഓപ്പൺ സർക്യൂട്ടായി മാറുന്നു കാരണം സിഗ്നൽ ആവൃത്തിയിലുള്ള അതിന്റെ റിയാക്റ്റൻസ് വേണ്ടത്ര ചെറുതായി തിരഞ്ഞെടുക്കപ്പെടുന്നു അതിനാൽ സോഴ്സ്ൽ നിന്ന് ഗ്രൌണ്ടിലേക്ക് R1 ദൃശ്യമാകുന്നു ഇപ്പോൾ ഈ ലോഡ് റെസിസ്റ്റൻസ് RL ന് ഡ്രെയിനിൽ നിന്ന് സ്മാൾ സിഗ്നൽ ഗ്രൌണ്ടിലേക്ക് പോകേണ്ടതുണ്ട് ഇത് ബന്ധിപ്പിക്കുന്നതിന് വിവിധ മാർഗങ്ങളുണ്ട് ഇപ്പോൾ ഇത് ഒരു യഥാർത്ഥ റെസിസ്റ്റൻസാണെന്ന് ഞാൻ അനുമാനിക്കും അതിനാൽ ഇത് യഥാർത്ഥ റെസിസ്റ്റൻസാണെങ്കിൽ എനിക്ക് അത് ഡ്രെയിൻ ടെർമിനലിനും സപ്ലൈ വോൾട്ടേജിനുമിടയിൽ ബന്ധിപ്പിക്കാൻ കഴിയും സപ്ലൈ വോൾട്ടേജ് സ്മാൾ സിഗ്നൽ ഗ്രൌണ്ട് ആണ് അതിനാൽ ഈ RL ഡ്രെയിനിനും ഗ്രൌണ്ടിനും ഇടയിൽ ദൃശ്യമാകുന്നു പിന്നീട് ഈ RL റെസിസ്റ്റൻസ് അല്ലാത്തപ്പോൾ എന്തുചെയ്യണമെന്ന് നമ്മൾ കാണും പക്ഷേ അത് പിന്നീട് വരുന്ന ഒന്നിൻറെ പ്രാതിനിധ്യമാണ് അതിനാൽ ഇപ്പോൾ ഇത് വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സിന്റെ പൂർണ്ണ സർക്യൂട്ട് ആണ് സോഴ്സ് ഫോളോവർ സർക്യൂട്ടിനോട് ഇത് എത്രത്തോളം സാമ്യമുണ്ടെന്നും നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഈ സർക്യൂട്ടിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇവിടെ നോക്കുന്നു ഞാൻ അതിനായി സ്മാൾ സിഗ്നൽ ചിത്രം പ്രത്യേകം എഴുതാൻ പോകുന്നില്ല ഇത് ഇപ്പോൾ വളരെ പരിചിതമായ ചിത്രമാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് വെറും R1 || R2 ഗേറ്റിലേക്ക് വൈദ്യുത പ്രവാഹമൊന്നുമില്ല പക്ഷേ ഗേറ്റിനും ഗ്രൌണ്ടിനും ഇടയിൽ R1 R2 എന്നിവ ദൃശ്യമാകുന്നു R1 R2 എന്നിവ ഏകപക്ഷീയമായി വലുതായി തിരഞ്ഞെടുക്കാം കാരണം ഗേറ്റിലേക്ക് വൈദ്യുത പ്രവാഹമൊന്നും പ്രവഹിക്കുന്നില്ല അതിനാൽ നിങ്ങൾ R1 R2 എന്നിവ തിരഞ്ഞെടുക്കുന്നു R1 || R2 Rs ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നമ്മൾ വീണ്ടും വിലയിരുത്തി അവിടെ മാറ്റമൊന്നുമില്ല അതിനാൽ ഡ്രെയിനിനും ഗ്രൌണ്ടിനും ഇടയിലുള്ള ഡ്രെയിനിലേക്ക് നോക്കുകയാണെങ്കിൽ gmrdsR1rdsR1 ന് തുല്യമായ ഇൻക്രെമെന്റൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നമ്മൾ കാണും അതിനാൽ അവിടെ മാറ്റമൊന്നുമില്ല അപ്പോൾ നമ്മൾ കപ്പാസിറ്ററിലെ തടസ്സങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് അതിനാൽ ഈ C1 വീണ്ടും ഞാൻ അതിൽ സമയം ചെലവഴിക്കാൻ പോകുന്നില്ല കാരണം നമ്മൾ ഇത് മുമ്പ് നിരവധി തവണ ചെയ്തിട്ടുണ്ട് C1 ന്റെ റിയാക്റ്റൻസ് അതിലുടനീളം ദൃശ്യമാകുന്നതിനേക്കാൾ വളരെ ചെറുതായിരിക്കണം അത് Rs R1 || R2 ആണ് C1 ൽ ഉടനീളം ദൃശ്യമാകുന്ന റെസിസ്റ്റൻസാണിത് അതിനാൽ C11ωRSR1||R2 ഇപ്പോൾ C3 എന്താണ് C3 സിഗ്നൽ ഫ്രീക്വൻസിയിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കണം അതിനാൽ സോഴ്സിനും ഗ്രൌണ്ടിനും ഇടയിൽ R1 ദൃശ്യമാകും ഇതും നമ്മൾ മുമ്പ് കണക്കാക്കിയതാണ് പക്ഷേ ഞാൻ ഒരിക്കൽ കൂടി കണക്കുകൂട്ടൽ കാണിച്ചുതരാം vi പൂജ്യമാക്കി നമ്മൾക്ക് R1 || R2 ഗേറ്റ് മുതൽ ഗ്രൌണ്ട് വരെ ഉണ്ട് നമ്മൾക്ക് RL ഉണ്ട് കപ്പാസിറ്റൻസ് C3 റെസിസ്റ്റൻസ് R1 എന്നിവയുണ്ട് ഇവ രണ്ടിനുമിടയിൽ ദൃശ്യമാകുന്ന റെസിസ്റ്റൻസ് നമ്മൾ വിലയിരുത്തണം ഇപ്പോൾ ഞാൻ MOS ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് കണ്ടക്ടൻസ് ഒഴിവാക്കി നിങ്ങൾ ഇത് ഉൾപ്പെടുത്തുന്നുവെങ്കിൽ കണക്കുകൂട്ടലുകൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാകൂo പക്ഷേ അവ പ്രശ്നത്തെക്കുറിച്ച് ഒരു ഉൾക്കാഴ്ചയും ചേർക്കുന്നില്ല ഔട്ട്പുട്ട് കണ്ടക്ടൻസ് വളരെ വലുതായിരിക്കുന്നിടത്തോളം കാലം ഇത് കൂടാതെ നമ്മൾ നേടുന്ന ഫലം മതിയായ ഏകദേശക്കണക്കാണ് അതിനാൽ ഞാൻ അത് കൂടാതെ ഇവ നേടാൻ പോകുന്നു ഇപ്പോൾ ഇത് നമ്മൾ ഇതിനകം കണ്ടെത്തിയതാണെന്ന് കാണാം ഇത് എവിടെ നിന്നാണ് നമ്മൾ കണ്ടെത്തിയത് ഇത് ഒരു സോഴ്സ് ഫോളോവറിൽ ഔട്ട്പുട്ട് കപ്പിൾ ചെയ്യുന്നതിനാണ് ഈ ചിത്രം കൃത്യമായി ഇതുപോലെ കാണപ്പെടും പക്ഷേ RL ഇല്ലായിരുന്നു ഡ്രെയിൻ നേരിട്ട് ഗ്രൌണ്ട് മായി ബന്ധിപ്പിച്ചിരിക്കുന്നു പക്ഷേ ഇത് കണക്കുകൂട്ടലിൽ യാതൊരു വ്യത്യാസവുo വരുത്തുന്നില്ല നിങ്ങൾക്ക് ഇത് സ്വയം ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഇവ രണ്ടിനുമിടയിൽ ഒരു ടെസ്റ്റ് വോൾട്ടേജ് പ്രയോഗിക്കാൻ കഴിയും കൂടാതെ ഈ രണ്ട് പോയിന്റുകൾക്കിടയിൽ ദൃശ്യമാകുന്ന റെസിസ്റ്റൻസ് കണ്ടെത്താം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കുന്നതും R1 ആയ താഴേക്ക് നോക്കുന്നതും കണ്ടെത്താം C3 R1 ൽ ഉടനീളം ദൃശ്യമാകുന്ന റെസിസ്റ്റൻസാണ് താഴത്തെ വരി അതിനാൽ C3 ന്റ റിയാക്റ്റൻസ് ഇതിനെക്കാൾ വളരെ ചെറുതായിരിക്കണം അല്ലെങ്കിൽ C3≫1ωR1ആയിരിക്കണം ഇപ്പോൾ ഒരു വലിയ rds ഉണ്ടായിരിക്കുമ്പോഴും ഇത് മതിയായ ഏകദേശ കണക്കാണ് അതിനാൽ നമ്മൾ ഈ ഫലം ഉപയോഗിക്കാൻ പോകുന്നു അതിനാൽ അത് വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സിന്റെ അടിസ്ഥാന ചർച്ച പൂർത്തിയാക്കുന്നു നമ്മൾ മനസ്സിലാക്കാൻ താൽപ്പര്യപ്പെടുന്ന ഒരു ട്രാൻസ് കണ്ടക്ടൻസ്സിനായി gm എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് നിങ്ങൾക്കറിയാം കൂടാതെ ബയസ് സർക്യൂട്ടിനെ ഇൻക്രിമെൻറ് സർക്യൂട്ടുമായി എങ്ങനെ സംയോജിപ്പിക്കാമെന്നും നമ്മൾക്കറിയാം പൂർണ്ണ സർക്യൂട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഞാൻ ലോഡിനെ ഡ്രെയിനും VDD യും തമ്മിൽ നേരിട്ട് ബന്ധിപ്പിച്ചു അത് സാധ്യമല്ലെങ്കിൽ നമ്മൾ അത് ഏതെങ്കിലും വിധത്തിൽ എസി കപ്പിൾ ചെയ്യണം അത് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ കാണും